എല്ലാവർക്കും സ്വാഗതം ദുരന്ത മോചനവും മികച്ച രീതിയിലുള്ള പുനർ നിർമ്മിതിയും എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ നാം അപകടസാധ്യതകളെക്കുറിച്ചും ദുരന്ത തയ്യാറെടുപ്പിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു ഇതിനകം ഒരു പരിധിവരെ നമ്മൾ ചർച്ചചെയ്തിട്ടുണ്ട് അതിൻറെ തുടർച്ചയാണ് ഞാൻ ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയിലെ ദുരന്ത നിവാരണ ഗവേഷണ സ്ഥാപനത്തിൽ നിന്നുള്ള സുഭജ്യോതി സമാദാർ ദുരന്തത്തിനെതിരെ ആളുകളുടെ തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ചില ചെറിയ ഗാർഹിക തയ്യാറെടുപ്പ് സംവിധാനം ആവശ്യമാണ് ഇൻഷുറൻസ് പലായനം മഴവെള്ള സംഭരണം പോലുള്ളവ ദുരന്ത തയ്യാറെടുപ്പിനായി ഒരു വ്യക്തി എന്നുപറയുന്നത് വളരെ ചെറുതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തിയത് അതിനാൽ കൂടുതൽ കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ നാം കൂടുതൽ കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം ചെറിയ ചെറിയ ചെറിയ ശ്രമം വളരെ ഭീമാകാരമായിരിക്കും ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവരുടെ മനസ്സ് മനസിലാക്കേണ്ടതുണ്ട് കാരണം അവരുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട് അവരുടെ തയ്യാറെടുപ്പ് ഉദ്ദേശ്യം തയ്യാറെടുപ്പിനോടുള്ള അവരുടെ മനോഭാവം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ റിസ്ക് കമ്മ്യൂണിക്കേഷൻ സംവിധാനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഒരുവശത്ത് തയ്യാറെടുപ്പ് ഉദ്ദേശ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രാദേശിക ഭരണകൂടമാണ് മറുവശത്ത് പ്രാദേശിക ജനത പക്ഷേ ഇത് ശരിക്കും വെല്ലുവിളിയാണെന്ന് എന്നാണ് കണ്ടെത്തിയത് ശരിക്കും വെല്ലുവിളിയാണ് ധാരാളം പണം ചെലവഴിച്ചതിന് ശേഷം ധാരാളം സമയം ധാരാളം പ്രോജക്ടുകൾ ചെയ്തിട്ടും ആളുകൾ അപകടസാധ്യതയുള്ള സമൂഹം അവർ തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ പരമ്പരാഗത റിസ്ക് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം തന്ത്രങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിൻറെ ഒരു കാരണം അല്ലെങ്കിൽ ഒരു വഷം ഇതാണ് സ്വന്തം അറിവ് കണക്കാക്കുന്ന ആളുകൾ അവർ കരുതുന്നു അവർക്ക് എല്ലാം അറിയാം എന്ന് ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് സംഭവിക്കില്ലെന്ന് അവർക്ക് അറിയാം അത് അവരെ ബാധിക്കില്ല അല്ലെങ്കിൽ ഒരുപക്ഷേ അവർക്ക് അറിയാം ശരി ദുരന്തം വരുന്നു പക്ഷേ ഞാൻ തയ്യാറാണ് ഞാൻ വേണ്ടത്ര തയ്യാറെടുപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നെ അപകടം ബാധിക്കില്ല മറ്റൊന്ന് അറിവ് കൈമാറ്റം ചെയ്യുന്നതാണ് അവർ കരുതുന്നത് ഇതിൻറെ ഉത്തരവാദിത്വം പ്രാദേശിക മുനിസിപ്പൽ അതോറിറ്റി അല്ലെങ്കിൽ പ്രാദേശിക സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രസർക്കാർ ഏറ്റെടുക്കും എന്നാണ് ഇതിനകം ചർച്ച ചെയ്ത ഈ ഘടകങ്ങൾ യഥാർത്ഥത്തിൽ കുറഞ്ഞ തയ്യാറെടുപ്പ് ഉദ്ദേശ്യംവർദ്ധിപ്പിക്കും വസ്തുനിഷ്ടമായ അപകട അപകടസാധ്യതയെക്കുറിച്ചും സ്ഥിരമായ അപകടസാധ്യതയെക്കുറിച്ചും ശാസ്ത്രീയമായ അപകടസാധ്യതയെക്കുറിച്ചും ശാസ്ത്രജ്ഞർകണക്കാക്കുന്നതിനെക്കുറിച്ചും ആഗ്രഹിക്കുന്ന അപകടസാധ്യതയെക്കുറിച്ചും നാം ചർച്ച ചെയ്തു സാധാരണക്കാർ എന്താണ് ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ അപകടം എന്താണെന്നാൽ ഒരു പ്രതികൂല സംഭവത്തിന്റെ സാധ്യതയും വ്യാപ്തിയും ആണ് അപകടസാധ്യതയെക്കുറിച്ച് നിലവിലുള്ള വിവരങ്ങൾ നിലവിലുള്ള എസ്റ്റിമേറ്റുകൾ എന്നിവ പരിഷ്കരിക്കുന്നതിന് നമുക്ക് കൂടുതൽ ഡാറ്റ ആവശ്യമുണ്ട് കൂടാതെ നമ്മുടെ നിലവിലുള്ള അറിവ് എന്തായാലും ശരി ദയവായി ആളുകളുടെ ധാരണകൾ ഉൾപ്പെടുത്തരുത് ദുരന്തസാധ്യതാ മാനേജ്മെന്റിൽ ആളുകളുടെ ധാരണകൾ ഉൾപ്പെടുത്തുക അത് തന്നെ ഒരു ദുരന്തമായിരിക്കും അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ലളിതമായി ഈ വിടവ് കുറയ്ക്കേണ്ടതുണ്ട് നമ്മൾ ജനങ്ങളോട് പറയണം അവർക്ക് അറിയാവുന്നത് കേവലം ശരിയല്ലെന്നും ഒരു ശാസ്ത്രജ്ഞനെന്ന നിലയിലും ഒരു വിദഗ്ദ്ധനെന്ന നിലയിലും നാം പറയുന്നത് ശരിയാണെന്നും അതിനാൽ നമ്മുടെ കണക്കുകൂട്ടൽ ശരിയാണെന്നും അപ്പോൾ മാത്രമേ നമുക്ക് ആളുകളുടെ തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കാൻ കഴിയൂ അതിനാൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം ഇപ്പോൾ ശാസ്ത്രജ്ഞർ ശരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ ശാസ്ത്രജ്ഞർക്ക് പോലും അപകടസാധ്യത കൃത്യമായി അളക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ വ്യക്തി പറയുന്നത് എന്തും നിലവിലുണ്ട് കുറച്ച് അളവിൽ നിലവിലുണ്ട് അതിനാൽ അളക്കാൻ കഴിയും അവർ നൽകിയ ഉദാഹരണം പോലെ ഈ റോഡ് അപകടത്തിലാണ് അതിനാൽ ആഹ്ലാദിക്കരുത് നായകനാകാൻ ശ്രമിക്കരുത് നിങ്ങൾ അപകടത്തിലാകും ഇടതുവശത്തുള്ള റോഡ് സുരക്ഷിതമാണ് വലതുവശത്തുള്ള റോഡ് സുരക്ഷിതമല്ല എന്നാൽ ഇവിടുത്തെ ചോദ്യം ഏതാണെന്നു പറയൂ ഏതാണ് കൂടുതൽ അപകടസാധ്യതയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു വിമാനത്തിലൂടെയോ റോഡിലൂടെയോ പോകുന്നു ഏതാണ് കൂടുതൽ അപകടസാധ്യതയുള്ളത് അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എനിക്കറിയാം മിക്ക ആളുകളും കരുതുന്നത് വിമാനത്തിലൂടെ പോകുന്നത് റോഡിനേക്കാൾ അപകടകരമാണെന്ന് എന്നാൽ വാസ്തവത്തിൽ ഡാറ്റ വളരെ വിപരീതമാണ് ഗതാഗതത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ മാർഗം വിമാന യാത്രയാണ് റോഡിനേക്കാൾ അപകട നിരക്ക് അല്ലെങ്കിൽ അത്യാഹിത നിരക്ക് എന്നിവയിൽ വിമാനമാർഗ്ഗം കൂടുതൽ സുരക്ഷിതമാണ് എന്നാൽ ആളുകൾക്ക് യഥാർത്ഥത്തിൽ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത് ആളുകൾ റോഡിനേക്കാൾ വായുവിലൂടെയുള്ള യാത്ര ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു ഡാറ്റ കണക്കാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അപകടമുണ്ടായാൽ നമുക്ക് മതിയായ ഡാറ്റ ഉണ്ടോ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഘാനയിൽ ചില ഭൂകമ്പങ്ങൾ സംഭവിച്ചു നമുക്ക് ഈ ഡാറ്റ ലഭിക്കുമോ റോഡ് അപകട ഡാറ്റ നമുക്ക് അത് ലഭിക്കുമോ ഇല്ല പല വികസ്വര രാജ്യങ്ങളിൽ നിന്നും വരുന്ന സ്ഥിതിവിവരക്കണക്കുകളെ ആശ്രയിക്കാൻ നമുക്ക് കഴിയുമോ അടിസ്ഥാനപരമായി ഇല്ല ഇത് നന്നായി രേഖപ്പെടുത്തിയിട്ടില്ല ജർമ്മനി ജപ്പാൻ യുഎസ് അല്ലെങ്കിൽ യുകെ തുടങ്ങിയ രാജ്യങ്ങളിൽ അവരുടെ പക്കലുള്ള കൂടുതൽ വികസിപ്പിച്ച ഡോക്യുമെന്റഡ് ഡാറ്റ കൂടുതൽ വിശ്വസനീയമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അവർക്ക് ഈ രാജ്യങ്ങളെ അപേക്ഷിച്ച് മികച്ച അപകടസാധ്യത കണക്കാക്കാൻ കഴിയും അതിനാൽ ഞാൻ വിശ്വസിക്കേണ്ടത് ഏതാണ് സാധാരണക്കാരനെയോ ശാസ്ത്രജ്ഞനെയോ രസകരമായ മറ്റൊരു ഡാറ്റ ഇതാ രസകരമായ വസ്തുത ബോയ് എന്ന പുസ്തകത്തിൽ റോൾഡ് ഡാൽ എഴുതിയ ഒരു ഡയറി ഉണ്ട് കുട്ടിക്കാലത്തെ കഥകൾ അദ്ദേഹം എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് 80 വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലെങ്കിൽ 1920 കളിൽ സ്കൂളിലേക്കും പുറത്തേക്കും ഞാൻ നടത്തിയ യാത്രകൾ എനിക്ക് വളരെ വ്യക്തമായി ഓർമിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു കാരണം അവ വളരെ ആവേശകരമായിരുന്നു ആവേശം എന്റെ പുതിയ ട്രൈസൈക്കിളിനെ കേന്ദ്രീകരിച്ചായിരുന്നു എല്ലാ ദിവസവും എന്റെ മൂത്ത സഹോദരി അവളുടെ കൂടെ സവാരി ചെയ്യുന്നു മുതിർന്നവരാരും ഞങ്ങളോടൊപ്പം വന്നില്ല ഇതെല്ലാം നിങ്ങൾ മനസിലാക്കണം തെരുവിൽ മോട്ടോർ കാറുകൾ കാണുന്നത് ഒരു നല്ല സംഭവമായിരുന്നു ചെറിയ കുട്ടികൾക്ക് ട്രൈസൈക്ലിംഗും ഹൈവേയുടെ മധ്യഭാഗത്തുള്ള സ്കൂളിലേക്കുള്ള യാത്രയും തികച്ചും സുരക്ഷിതമായിരുന്നു സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ട്രൈസൈക്കിൾ വഴി അദ്ദേഹം പോകുന്നതും വരുന്നതും എന്താണ് മാത്രമല്ല ഹൈവേകളിലൂടെ കടന്നുപോകുന്ന അനുഭവം അദ്ദേഹത്തിനുണ്ട് അതിനാൽ ഹൈവേയിലെ ട്രൈസൈക്കിൾ അത് വളരെ ആസ്വാദ്യകരവും വളരെ സുരക്ഷിതവുമാണ് 1920 കളിൽ റോഡുകൾ ഇന്നത്തേതിനേക്കാൾ സുരക്ഷിതമായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ റോഡിലെ ട്രൈസൈക്കിൾ ഇന്നത്തേതിനേക്കാൾ സുരക്ഷിതമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഡാറ്റ നോക്കാം കൂടുതൽ അപകടമുണ്ടെങ്കിൽ ഒരു റോഡ് അപകടകരമാണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ 1922 ൽ കുട്ടികളുടെ റോഡപകടം ഇവിടെയുണ്ട് എല്ലാ വർഷവും 736 എന്നാൽ 1986 ൽ ഇത് 358 മാത്രമാണ് അതിനാൽ മോട്ടോർ വാഹനത്തിന്റെ കുട്ടികളുടെ മരണ നിരക്ക് 98 കുറഞ്ഞു അവിശ്വസനീയമാണ് എന്നാൽ ഈ വ്യക്തി പറയുന്നത് അത് വളരെ ആവേശകരവും എന്നാൽ തികച്ചും സുരക്ഷിതവുമായിരുന്നു എന്നാണ് അത് ശരിക്കും ആണോ പിന്നെ ശാസ്ത്രജ്ഞരെയോ സാധാരണക്കാരെയോ വിശ്വസിക്കാൻ വരട്ടെ ഇത് വിശ്വസിക്കേണ്ട കാര്യമല്ല പക്ഷേ ശാസ്ത്രീയ വിലയിരുത്തൽ ഞാൻ അദ്ദേഹത്തോട് എങ്ങനെ പറയണം 2003 ൽ ഭ്രാന്തിപ്പശു എന്ന രോഗത്തെക്കുറിച്ച് അദ്ദേഹത്തെ എങ്ങനെ ബോധ്യപ്പെടുത്താനാണ് ശാസ്ത്രജ്ഞർ ശ്രദ്ധിക്കുന്നത് മുഴുവൻ പശുക്കളുടെ അപകടത്തിലും ഭ്രാന്തിപ്പശു രോഗം കാരണം ജപ്പാൻ സർക്കാർ ജപ്പാനിൽ അമേരിക്കൻ ബീഫ് ഇറക്കുമതി നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അമേരിക്കൻ കാർഷിക അണ്ടർ സെക്രട്ടറി എഴുതിയ ഉദ്ധരണി വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ നിന്നിറങ്ങി അടുത്ത കടയിലേക്ക് നടന്നു പോയി ഗോമാംസം വാങ്ങുമ്പോൾ നിങ്ങളെ മറ്റൊരു വാഹനം ഇടിക്കുവാനുള്ള അവസരം ഒരുപക്ഷേ നിങ്ങൾ ഗോമാംസം കഴിച്ചുണ്ടാകുന്ന അപകടത്തെകാൾ സാധ്യതയുണ്ട് " അതിനാൽ നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഗോമാംസം വാങ്ങുന്നതിലൂടെ നിങ്ങൾ എടുക്കുന്ന അപകടസാധ്യതയേക്കാൾ വളരെ സുരക്ഷിതമാണ് ഗോമാംസം കഴിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് ബീഫ് ഷോപ്പിലേക്ക് നടക്കുമ്പോൾ അതിനാൽ പീറ്റർ സാൻഡ്മാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ആളുകളെ വിഷമിപ്പിക്കുന്ന അപകടസാധ്യത ആളുകളെ കൊല്ലുന്ന അപകടത്തേക്കാൾ തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ നേരിടുന്ന അപകടസാധ്യതകൾ അറിയാമോ അതു ണ്സാധ്യമാണോ ശരി ചില അപകടങ്ങൾ അറിയാം ചിലത് അടിസ്ഥാനപരമായി അജ്ഞാതമാണ് ഒരു വ്യക്തിക്കും എല്ലാം അറിയാൻ കഴിയില്ല അല്ലേ എന്റെ ജീവിതത്തിലെ എല്ലാം എന്താണെന്ന് എനിക്കറിയില്ല ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു രാസ അപകടത്തെക്കുറിച്ച് എനിക്കറിയില്ല ഒരുപക്ഷേ എനിക്ക് ചുറ്റുമുള്ള ദുരന്തസാധ്യതയെക്കുറിച്ച് എനിക്കറിയില്ല മിക്ക ആളുകൾക്കും മിക്ക അപകടങ്ങളെയും കുറിച്ച് അറിയാൻ കഴിയില്ല അതിനാൽ നേരിടേണ്ടിവരുന്ന മൊത്തം അപകടസാധ്യത കൃത്യമായി കണക്കാക്കാൻ ആർക്കും കഴിയില്ല അതിനാൽ ജീവിതത്തിൽ വളരെയധികം അപകടസാധ്യതകളുണ്ട് എനിക്ക് ആരോഗ്യപരമായ അപകടസാധ്യതയുണ്ട് എനിക്ക് ജോലി അപകടസാധ്യതയുണ്ട് എനിക്ക് സാമ്പത്തിക അപകടസാധ്യതയുണ്ട് എനിക്ക് അക്കാദമിക് അപകടസാധ്യതയുണ്ട് വെള്ളപ്പൊക്ക സാധ്യത വ്യക്തിഗത അപകടസാധ്യതയുണ്ട് ഞാൻ ദുരന്തസാധ്യത മാത്രമല്ല എല്ലാ ദിവസവും എന്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള യാത്രയിൽ തത്സമയ അപകടസാധ്യതയാണ് ഞാൻ വളരെയധികം അപകടസാധ്യതകൾ എടുക്കുന്നു അപകടം സംഭവിക്കാം നിങ്ങൾ ദുരന്തസാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ എന്റെ ജോലി അപകടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്റെ ആരോഗ്യത്തെക്കുറിച്ചോ കൂടുതൽ ആശങ്കയുണ്ട് അപ്പോൾ ഞാൻ ഏതിനാണ് മുൻഗണന നൽകേണ്ടത് എനിക്ക് ഒരു വ്യക്തിയെന്ന ചിന്തിക്കാൻ കഴിയാത്തതിനാൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്റെ അറിവ് വളരെ പരിമിതമാണ് അതായിരിക്കണം ഒരു വ്യക്തിയെന്ന നിലയിൽ എനിക്ക് ഈ ലോകത്തിലെ എല്ലാം അറിയാൻ കഴിയില്ല അതിനാൽ നമുക്ക് ജീവിതത്തിൽ നിരവധി അപകടസാധ്യതകളുണ്ട് അതിനാൽ ഏതാണ് പരിഗണിക്കേണ്ടത് ഏതാണ് അവഗണിക്കേണ്ടത് എന്ന് നമ്മൾ മുൻഗണന നൽകേണ്ടതുണ്ട് ഇപ്പോഴത്തെ ചോദ്യം ആളുകൾ ഏത് റിസ്ക് എടുക്കണം ഏത് റിസ്ക് അവഗണിക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കും ഇപ്പോൾ വീണ്ടും വരുന്ന ചോദ്യം അപകടങ്ങൾ അവൾ ശരിക്കും വർദ്ധിക്കുന്നുണ്ടോ മുമ്പത്തേതിനേക്കാൾ അപകടത്തിലാണോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഭയപ്പെടുന്നു ഏതാണ് ശരി അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അപകടത്തിലാണ് ദയവായി പരിഗണിക്കുക ഒരുപക്ഷേ എനിക്ക് അൽപ്പം സഹായിക്കാനാകും നിരക്ക് അടിസ്ഥാനപരമായി കുറയുന്നു ആയുർദൈർഘ്യം അടിസ്ഥാനപരമായി വർദ്ധിക്കുന്നു ശിശുമരണ നിരക്ക് അടിസ്ഥാനപരമായി കുറയുന്നു പക്ഷേ മറുവശത്ത് നമ്മൾ കൂടുതൽ വിഷ രാസവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നു മുമ്പത്തേതിനേക്കാൾ പ്രകൃതിയിൽ നിന്ന് വളരെ അകലെയാണ് ശരിയാണ് മുമ്പത്തേതിനേക്കാൾ കൂടുതൽ കൂടുതൽ നമ്മൾ വികിരണത്തിന് വിധേയരാകുന്നു ഈ അപകടസാധ്യതകൾ വർദ്ധിച്ചുവരുന്ന കൂടാതെ നമ്മുടെ സമ്മർദ്ദകരമായ ജീവിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പരിസ്ഥിതി മലിനീകരണം തീർച്ചയായും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞത് ഇന്ത്യയിൽ ശബ്ദ മലിനീകരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഒരു സർവേ നടത്തിയത് പൊതുനയവും 4 തരം അപകടസാധ്യതകളും വിദേശകാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ മലിനീകരണം സാമ്പത്തിക പരാജയം ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ആളുകൾ എല്ലാത്തരം അപകടസാധ്യതകളെയും കുറിച്ച് ആശങ്കാകുലരാണോ മൂന്ന് തരം ആളുകളെ അഭിമുഖം നടത്തി പൊതുജനങ്ങൾ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവുകൾ ഫെഡറൽ റെഗുലേറ്റർമാർ നാം കണ്ടെത്തിയ ഫലം മുമ്പത്തേതിനേക്കാൾ അപകടസാധ്യത വർദ്ധിക്കുന്നുണ്ടോ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുജനങ്ങളിൽ ഇരട്ടി ആളുകൾ കമ്പനി എക്സിക്യൂട്ടീവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുജനം രണ്ടുതവണ 20 വർഷം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ അപകടസാധ്യത സമൂഹത്തിൽ കൂടുന്നു ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരതയുടെ കാര്യമോ 61 പൊതുജനവും എക്സിക്യൂട്ടീവും മുമ്പത്തേതിനേക്കാൾ ഇന്ന് നമുക്ക് കൂടുതൽ അപകടസാധ്യതയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു ബ്യൂറോക്രാറ്റുകളോ സർക്കാർ ഉദ്യോഗസ്ഥരോ പൊതു ഉദ്യോഗസ്ഥരോ 44 ശതമാനം പേരും ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടെങ്കിലും ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിക്കുന്നതായി അവർ വിശ്വസിക്കുന്നില്ല രാസവസ്തുക്കളിൽ നിന്നുള്ള അപകടങ്ങൾ 20 വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ വർദ്ധിക്കുന്നുണ്ടോ കമ്പനി എക്സിക്യൂട്ടീവുകൾ 38 പേർ അതെ എന്നും പൊതു സർക്കാർ റെഗുലേറ്റർമാർ 13 പേർ അതെ വർദ്ധിക്കുന്നുവെന്ന് പറഞ്ഞു മുമ്പത്തേതിനേക്കാൾ സാമ്പത്തിക റിസ്ക് 10 സർക്കാർ ജീവനക്കാർ പൊതു ഉദ്യോഗസ്ഥർ അവർ അതെ എന്ന് പറഞ്ഞു 41 കമ്പനി എക്സിക്യൂട്ടീവ് അതെ എന്ന് പറഞ്ഞു അപകടസാധ്യത മനസിലാക്കുന്നതിൽ ആളുകൾക്ക് വ്യത്യസ്ത വീക്ഷണമുണ്ട് അപ്പോൾ തയ്യാറെടുപ്പിനായി അവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം ആ അപകടസാധ്യത മാത്രമല്ല പ്രതികൂല നടപടികളെക്കുറിച്ചും ഇപ്പോൾ ഈ വ്യക്തിയോട് അല്ലെങ്കിൽ മറ്റൊരാളോട്ഡ് പറയുകയാണ് വെള്ളപ്പൊക്കം വരുന്നു ദയവായി സ്ഥലം മാറുക സ്ഥലം മാറ്റണോ വേണ്ടയോ എന്ന് അദ്ദേഹം വലിയ പ്രതിസന്ധിയിലാണ് ഒരുപക്ഷേ അപകടസാധ്യത വരുന്നു ഒരുപക്ഷേ വെള്ളപ്പൊക്കം വരാം പക്ഷെ എനിക്ക് ആ തീരുമാനം എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കാരണം പലായനം ചെയ്യുന്നതിന്റെ ഫലം എനിക്കറിയില്ല ഇത് ശരിക്കും ഫലപ്രദമാണോ അല്ലെങ്കിൽ അത് ഫലപ്രദമല്ലേ ശരി പലായനത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പലായനം ചെയ്യുന്നതിന്റെ അപാകതകൾ എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമല്ല അതിനാൽ ഇപ്പോൾ ഒരു അപകടസാധ്യതയുണ്ടെന്ന് ഞാൻ അംഗീകരിച്ചാലും എനിക്ക് കഴിയില്ല കുടി ഒഴിയാനുള്ള എന്റെ തീരുമാനം ഫലപ്രദമായ ഒരു നടപടിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല അതിനാൽ പലായനം ഫലപ്രദമായ നടപടിയല്ലെന്ന് അദ്ദേഹം തുടക്കത്തിൽ ചിന്തിച്ചേക്കാം അതിനാൽ ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം വൈജ്ഞാനിക സംവിധാനമാണ് അതിൽ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും അപകടസാധ്യതയെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് സാധ്യമാണ് ഇത് ഫലപ്രദമല്ല കാരണം പലായനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു വെള്ളപ്പൊക്കത്തിൽ നിന്ന് എന്നെത്തന്നെ സംരക്ഷിക്കാനുള്ള ശരിയായ നടപടി അല്ലെന്ന് ഇപ്പോൾ അവൻ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയില്ല തയ്യാറെടുപ്പ് നടപടിയെടുക്കാൻ അവനെ പ്രോത്സാഹിപ്പിക്കുക പക്ഷേ അദ്ദേഹത്തിന് ധാരാളം ചങ്ങാതിമാരുണ്ടാകാൻ സാധ്യതയുണ്ട് കുടിയൊഴിപ്പിക്കൽ ഫലപ്രദമായ നടപടിയാണെന്ന് അവർ വിശ്വസിക്കുന്നു അവർ അദ്ദേഹത്തോട് പറയും പലായനം ചെയ്യുന്നത് ഒരു പ്രധാന ഘടകമാണെന്നും ഈ വ്യക്തി ഒരു സാമൂഹ്യജീവി ആയതിനാൽ അദ്ദേഹം മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടുന്നു അതിനാൽ അവൻ തന്റെ പ്രാരംഭ ആശയം ഉപേക്ഷിച്ചു അവൻ അവരോടൊപ്പം ചേർന്നു പലായനം ചെയ്യാൻ തുടങ്ങി നമുക്കിപ്പോൾ ഈ സന്ദർഭമുണ്ട് ഒന്ന് അറിവ് ഒന്ന് സമ്മതം അറിവിൽ നമുക്ക് ചിലപ്പോൾ അപകടസാധ്യതയുണ്ട് ചിലപ്പോൾ അനിശ്ചിതത്വമുണ്ട് സമ്മതത്തിന്റെ കാര്യത്തിൽ അതാണ് ചെയ്യേണ്ട നടപടികൾ ചിലപ്പോൾ നാം പരസ്പരം യോജിക്കുന്നു ചിലപ്പോൾ നമ്മൾ പരസ്പരം യോജിക്കുന്നില്ല അതിനാൽ മത്സരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു അറിവ് അനിശ്ചിതത്വത്തിലാണെങ്കിലും സമ്മതം പൂർത്തിയാകുമ്പോൾ തീരുമാനമെടുക്കുന്നത് ബുദ്ധിമുട്ടാണ് അറിവ് പെട്ടെന്നാണെങ്കിൽ സമ്മതം അനിശ്ചിതത്വത്തിലാകുകയോ അല്ലെങ്കിൽ മത്സരിക്കുകയോ ചെയ്യുമ്പോൾ വെള്ളപ്പൊക്കം വരുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഏതൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നും പലായനം ചെയ്യണമെന്നും അല്ലെങ്കിൽ സ്ഥലം മാറ്റരുതെന്നും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വെള്ളപ്പൊക്ക തയ്യാറെടുപ്പിനായി തയ്യാറെടുക്കണമെന്നും എനിക്കറിയില്ല അത് ആരെയാണ് ബാധിക്കുക എനിക്കറിയില്ല അതിനാൽ അറിവ് പെട്ടെന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ എന്ത് സമ്മതം ചെയ്യണമെന്ന് മത്സരിക്കുന്നു അല്ലെങ്കിൽ രണ്ടും യഥാർത്ഥത്തിൽ മത്സരിക്കുന്നതാകാം ചില അറിവുകൾ അനിശ്ചിതത്വത്തിലാണ് ഒപ്പം സമ്മതവും അതിനാൽ എന്താണ് അപകടസാധ്യത ഏത് അളവ് വരെ അപകടസാധ്യതയുണ്ട് ആളുകൾക്ക് അറിയാൻ അപകടസാധ്യത എന്തുകൊണ്ട് പ്രധാനമാണ് നാം തയ്യാറെടുപ്പ് അറിയുകയും വേണം മുൻഗണനാ ജോലി എന്താണ് ഏതാണ് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഫലപ്രദമായത് ആരാണ് ഇത് ചെയ്യുന്നത് എപ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു ദുരന്ത തയ്യാറെടുപ്പിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഘടകങ്ങൾ ഉൾപ്പെടുത്തണം എങ്ങനെ പ്രവർത്തിക്കണം ഒരു സന്ദേശം എങ്ങനെ അയയ്ക്കാം ദുരന്തങ്ങൾക്കെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വളരെ നന്ദി